സോഫ്റ്റ് സ്കില്ലുകളെക്കുറിച്ചുള്ള എൻ പി ടി ഇ എൽ ഓൺലൈൻ ലക്ച്ചറിലേക്ക് വീണ്ടും സ്വാഗതം നിലവിൽ നമ്മൾ ബിസിനസ്സ് കത്തുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ബിസിനസ്സ് കത്തുകളുടെ തത്വങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനകം സംസാരിച്ചു നമ്മൾ അതിന്റെ ഘടന രൂപം ശൈലി എന്നിവയെ കുറിച്ച് ബിസിനസ് കത്തുകളുടെ ഈ ആവശ്യകതകളെ കുറിച്ചെല്ലാം സംസാരിച്ചു നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോഴോ ഒരു സ്ഥാപനത്തിൽ ആയിരിക്കുമ്പോഴോ വരും ദിവസങ്ങളിൽ ഏതു തരം കത്തുകളാണ് നിങ്ങൾക്ക് എഴുതേണ്ടതായി വരുക എന്നറിയാൻ വളരെയധികം കൌതുകമുണ്ടാകാം അതിനാൽ ഇനിയുള്ള ലക്ച്ചറുകളിൽ ഈ ബിസിനസ്സ് കത്തുകളുടെ വിവിധ തരങ്ങൾ അവയുടെ ഉദാഹരണങ്ങളോട് കൂടി നമ്മൾ വിവരിക്കും ഒരു ബിസിനസ് കത്ത് എങ്ങനെ വ്യവസ്ഥാപിതമായും ഭാഷാപരമായും രീതിപരമായും തയ്യാറാക്കുമെന്നും നമ്മൾ നോക്കും ബിസിനസ് കത്തുകളുടെ വ്യത്യസ്ത ഇനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചും ഉദ്ദേശങ്ങൾക്കും ആവശ്യങ്ങൾക്കുമനുസരിച്ചും കത്തുകളുടെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വിഭാഗത്തിലെ ആദ്യത്തേത് സെയിൽസ് ലെറ്റർ ആണ് ബിസിനസ് കത്തുകളെ കുറിച്ചുള്ള എന്റെ ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ പറയുന്നതു പോലെ എല്ലാ ബിസിനസ് കത്തുകളും ഗുഡ് വിൽ ലെറ്ററുകളാണെങ്കിലും അതിൽ അന്വേഷണ കത്തുകളും ഓർഡറുകൾ നൽകാനുള്ള കത്തുകളും ക്രെഡിറ്റ് ലെറ്ററുകളും കളക്ഷൻ ലെറ്ററുകളും ഉണ്ടാകാം കൂടാതെ ചിലപ്പോൾ കത്ത് എഴുതുന്ന ആളുടെ അഭ്യർത്ഥന നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ റെഫ്യുസൽ ലെറ്റർ എഴുതും ഇതുകൂടാതെ ക്ലെയിം ലെറ്റർ അഡ്ജസ്റ്റ്മെന്റ് ലെറ്റർ റെക്കഗ്നിഷൻ ലെറ്റർ എന്നിവയുമുണ്ട് ഈ വിവിധ തരം കത്തുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് അത് ഭാഷ മാത്രമാണോ സമീപനം മാത്രമാണോ അതോ കത്തുകൾ എഴുതുന്ന രീതി മാത്രമാണോ ബിസിനസുകളിൽ നിങ്ങൾ ആളുകൾക്ക് കത്തുകൾ എഴുതുന്നതിനാൽ സ്വാഭാവികമായും അവരുടെ ആവശ്യകതകൾ എന്താണെന്നും നിങ്ങൾ അതെങ്ങനെ നിറവേറ്റാൻ പോകുന്നുവെന്നുമെല്ലാം നിങ്ങൾ കാണേണ്ടി വരും ഒരു നല്ല സെയിൽസ് ലെറ്റർ ഒരു പരസ്യം പോലെയാവണം എന്നാണ് പറയാറ് ഇനി ഇവിടുത്തെ ചോദ്യം നിങ്ങൾ എന്തിനാണ് ഒരു സെയിൽസ് ലെറ്റർ എഴുതുന്നത് എന്നതാണ് നിങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നം വികസിപ്പിച്ചിട്ടുണ്ടെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്കത് വിപണിയിൽ ഇറക്കുകയും വേണം തീർച്ചയായും അതിനായി നിങ്ങൾക്ക് പരസ്യത്തിന്റെ സൌകര്യമുണ്ട് പക്ഷേ നിങ്ങൾക്ക് വ്യക്തികളും മറ്റു സ്ഥാപനങ്ങളും ഇതിനെക്കുറിച്ച് അറിയണമെന്നും നിങ്ങളുടെ നിലവിലുള്ള ഉപഭോക്താക്കൾക്കിടയിലും നിങ്ങൾക്ക് ഈ പുതിയ ഉൽപ്പന്നം പ്രചരിപ്പിക്കണം എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്റെ മോട്ടോർ ബൈക്കിനായി ഒരു ഇൻഷുറൻസ് ഏജൻസിയിൽ നിന്ന് ഞാൻ ഒരു പോളിസി വാങ്ങിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അവരെന്നോട് കത്തിലൂടെയും ഫോണിലൂടെയുമായി എന്റെ പക്കലുള്ള മറ്റു വാഹനങ്ങൾ ഏതൊക്കെയാണെന്നും അവരുടെ മറ്റു സേവനങ്ങൾ എന്തൊക്കെയാണെന്നുമെല്ലാം വിശദീകരിക്കാൻ തുടങ്ങി ഇത് യഥാർത്ഥത്തിൽ അവരുടെ ഉപഭോക്ത്യ അടിത്തറ വർധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം മാത്രമല്ല അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കാനുള്ളത് കൂടിയാണ് ഒരു സെയിൽസ് ലെറ്ററിനും സമാനമായ പ്രവർത്തനങ്ങളാണുള്ളത് ഒരു സെയിൽസ് ലെറ്ററിന്റെ പ്രവർത്തനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പക്ഷേ ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതിനു മുമ്പായി നമുക്ക് ഒരു ബിസിനസ് കത്തിന് മറ്റുള്ള കത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളതെന്ന് നോക്കാം ആദ്യത്തേത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത് പോലെ വ്യക്തമായ ഉള്ളടക്കമാണ് പിന്നീടുള്ളത് സൌഹാർദ്ദപരമായ ടോൺ ആണ് അത് കഴിഞ്ഞാൽ ശരിയായ ഘടനയാണ് മുമ്പത്തെ ലക്ച്ചറിൽ നമ്മൾ വിവിധ ഘടനകളെ കുറിച്ച് സംസാരിച്ചു നിങ്ങൾ ഒരു ഘടന തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും നിങ്ങളുടെ സ്ഥാപനത്തിൽ പിന്തുടരുന്ന സമ്പ്രദായങ്ങൾക്കനുസരിച്ചുമാണ് പക്ഷേ നിങ്ങളിരുന്ന് ഒരു സെയിൽസ് ലെറ്റർ എഴുതാൻ തുടങ്ങിയെന്ന് സങ്കൽപ്പിക്കുക അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരു സെയിൽസ് ലെറ്റർ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നം ഇറക്കുകയാവാം അല്ലെങ്കിൽ ഒരു പുതിയ ഉൽപ്പന്നം പ്രചരിപ്പിക്കുകയാവാം ചിലപ്പോൾ നിങ്ങൾ പരാതിപ്പെടുകയോ ചിലപ്പോൾ പ്രതികരണം നൽകുകയോ ചിലപ്പോൾ ഓർഡറുകൾ നൽകുകയോ ചിലപ്പോൾ ആ ഓർഡറുകൾക്ക് പ്രതികരണം നൽകുകയോ ആവാം ഇതുമായി ബന്ധപ്പെട്ട് സർ ഏണസ്റ്റ് ഗോവർ പറയുന്ന കാര്യങ്ങൾ തികച്ചും പ്രസക്തമാണ് ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സെയിൽസ് ലൈറ്റുകളും ബിസിനസ് കത്തുകളും വിജയപ്രദമായി മാറും അദ്ദേഹം പറയാൻ കാരണം ഒരു കത്ത് എന്നത് ബിസിനസിൽ രണ്ട് ആളുകൾ തമ്മിലുള്ള ഇടപാടാണ് ചിലപ്പോൾ എതിർവശത്തുള്ള ആൾ ദേഷ്യത്തിലായിരിക്കാം ഏണസ്റ്റ് ഗോവർ പറയുന്നത് എന്തെന്നാൽ അയാൾ ദേഷ്യത്തിലാണെങ്കിൽ പ്രത്യേകമായി മര്യാദ പാലിക്കുക അയാൾ കുഴപ്പക്കാരനാണെങ്കിൽ പ്രത്യേകമായി വ്യക്തത പുലർത്തുക ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു കോപം നിറഞ്ഞ കത്ത് കാണാം അതിൽ ആ വ്യക്തി വളരെ പരുഷമായും ധിക്കാരിയായും മര്യാദയില്ലാതെയും പെരുമാറും ഇത്തരം ഘട്ടങ്ങളിൽ സർ ഏണസ്റ്റ് ഗോവർ നമ്മൾ പ്രത്യേകമായി മര്യാദ പാലിക്കണമെന്നാണ് ഉപദേശിക്കുന്നത് അയാൾ കുഴപ്പക്കാരനാണെങ്കിൽ അയാൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് വ്യക്തത ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഒരുതരം വ്യക്തത പുലർത്തി കൊണ്ടാണ് അയാൾ ഒരു ശാഠ്യക്കാരൻ ആണെങ്കിൽ അയാൾ വളരെ അക്ഷമനാണെങ്കിൽ നിങ്ങൾ ക്ഷമ പാലിക്കണം നിങ്ങൾ അക്ഷമരായിരിക്കരുത് അയാൾ സഹായി ആണെങ്കിൽ നിങ്ങൾ കൃതജ്ഞതയുള്ളവർ ആയിരിക്കുക ചില സമയങ്ങളിൽ ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു പ്രത്യേക പ്രശ്നത്തിൽ ഒരു പ്രത്യേക രീതിയിൽ അയാൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും എന്നാൽ അത് തിരികെ നൽകേണ്ടതാണ് അയാളുടെ സേവനങ്ങളെയും സഹായങ്ങളെയും അഭിനന്ദിച്ചു കൊണ്ടാണ് അത് തിരിച്ചു നൽകേണ്ടത് അവർ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് അംഗീകരിക്കുക ചിലപ്പോൾ എതിർകക്ഷിയിൽ നിന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നിങ്ങൾക്ക് ലഭിച്ചേക്കാം അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വെറുതെ നന്ദിയോടെ അത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ദോഷവുമില്ല എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു ബിസിനസ് കത്ത് അല്ലെങ്കിൽ സെയിൽസ് കത്ത് തയ്യാറാക്കുമ്പോൾ ഈ വരികൾ നിലനിർത്താൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഉപദേശിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് സർ ഏണസ്റ്റ് ഗോവർ പറഞ്ഞ വരികൾ യഥാർത്ഥത്തിൽ എല്ലാത്തരം ബിസിനസ് കത്തുകളുടെയും സവിശേഷതയാണ് നിങ്ങൾ ഒരു സെയിൽസ് ലെറ്റർ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങൾക്ക് ഒരു പ്രത്യേക ഉൽപ്പന്നത്തെ കുറിച്ച് ഒരു ധാരണയുണ്ട് നിങ്ങൾ അത് പ്രചരിപ്പിക്കാൻ പോവുകയുമാണെങ്കിൽ എ ഐ ഡി എ പ്രക്രിയ പിന്തുടരുന്നതാണ് എപ്പോഴും നല്ലത് എഐഡിഎ പ്രക്രിയ നിങ്ങൾക്ക് ഒരു കത്തെങ്ങനെ എഴുതണം എന്നതിൽ വഴികാട്ടി ആവും എ ഐ ഡി എ എന്നത് ഒരു ചുരുക്കരൂപമാണ് എ എന്നത് അറ്റൻഷൻ സൂചിപ്പിക്കുന്നു ഐ സൂചിപ്പിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ് ഡി എന്നത് ഡിസയറാണ് സൂചിപ്പിക്കുന്നത് എ എന്നത് ആക്ഷനേയും ഇതിനർത്ഥം നിങ്ങൾ ഒരു കത്ത് പുനരാരംഭിക്കുമ്പോൾ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൽ നിങ്ങളുടെ ഉപഭോക്താക്കളുടെ ശ്രദ്ധ ആകർഷിപ്പിക്കണം അവരുടെ ശ്രദ്ധ നിങ്ങൾ ആകർഷിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവനിൽ അല്ലെങ്കിൽ അവളിൽ ഒരു ഉൽപ്പന്നത്തിന് വേണ്ടി ആഗ്രഹം സൃഷ്ടിക്കുക എന്നതാണ് നിങ്ങൾ അതും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് ഒരു തരം ദൃഢവിശ്വാസം നൽകി തുടങ്ങാം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉൽപ്പന്നത്തെ കുറിച്ച് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും അത് ശരിക്കും അവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ വിശദീകരിക്കണം അങ്ങനെ കത്തിന്റെ അവസാനത്തോടടുക്കുമ്പോഴേക്കും നിങ്ങളുടെ കത്തിന്റെ സ്വീകർത്താവ് അത് വാങ്ങിക്കുന്ന ഒരാളായി മാറണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ അവരെ പ്രേരിപ്പിക്കുക എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ നിങ്ങൾ അവരെ പ്രചോദിപ്പിക്കുക ഇതാണ് എ ഐ ഡി എ പ്രക്രിയ അല്ലെങ്കിൽ എ ഐ ഡി എ ടെക്നിക് എന്നതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാൽ എല്ലാത്തരം സെയിൽസ് ലെറ്ററുകളും ഈ എ ഐ ഡി എ പ്രക്രിയയുമായി പൊരുത്തപ്പെടും നിങ്ങൾ ഒരു ബിസിനസ് ലെറ്റർ എഴുതാൻ തുടങ്ങി എന്ന് കരുതുകയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് എന്തിനാണ് നിങ്ങൾ ഈ കത്ത് എഴുതുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും എന്തിനാണ് ഒരു പ്രത്യേക കത്ത് എഴുതുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ കത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു പ്രത്യേക സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത് എഴുതുന്നതിന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ വിശകലനം ചെയ്യണം വിശകലനം ദീർഘദൃഷ്ടി അനുരൂപീകരണം ചിലപ്പോൾ നിങ്ങളുടെ വായനക്കാരന്റെ അല്ലെങ്കിൽ സ്വീകർത്താവിന്റെ പ്രേക്ഷകരുടെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും സ്വാഭാവികമായും അപ്പോൾ നിങ്ങളുടെ കത്ത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ ആദ്യം നിങ്ങൾ എന്തിനാണ് കത്ത് എഴുതുന്നത് എന്നുള്ള ഉദ്ദേശം തീരുമാനിക്കുക എന്നിട്ട് പ്രേക്ഷകർ അതെങ്ങനെ സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് അവർ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്നിട്ട് നിങ്ങളുടെ കത്ത് വളരെ ശ്രദ്ധാപൂർവ്വം വളരെ ബുദ്ധിപൂർവ്വം ചിട്ടപ്പെടുത്തുക ബുദ്ധിപൂർവ്വം എന്ന് പറഞ്ഞത് നിങ്ങൾ എടുക്കുന്ന വാക്കുകളുടെ ഉപയോഗം വളരെ വിവേകമുള്ളതാകണം അവസാനമായി നിങ്ങൾ കത്ത് എഴുതിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രൂഫ് റീഡ് ചെയ്ത് ചില വാക്കുകൾ കളയണോ എന്നും ചില വാക്കുകൾ കൂട്ടിച്ചേർക്കണോ എന്നുമെല്ലാം നോക്കുന്നതാണ് ഉചിതം അത് നിങ്ങളുടെ കത്തിനെ വായിക്കാനുപകരിക്കുക മാത്രമല്ല അതിന്റെ വില്പനയ്ക്കും ഉപകരിക്കുന്നതാണ് കാരണം ഓരോ സെയിൽസ് ലെറ്ററിന്റെയും പിന്നിലെ ഉദ്ദേശം കത്തിന്റെ വായനക്കാരനെ ഒരു ഉപഭോക്താവാക്കി മാറ്റുക എന്നതാണ് ഇനി നിങ്ങൾ ഒരു സെയിൽസ് ലെറ്റർ എഴുതാൻ ആരംഭിക്കുമ്പോൾ എല്ലാ സെയിൽസ് ലെറ്ററിനും മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാകും ഞാൻ ഉദ്ദേശിച്ചത് അതിൽ ഒരു ആമുഖം ഉണ്ടാകും അതിലൊരു ബോഡി ഉണ്ടാകും അതിനൊരു അവസാനവും ഉണ്ടാകും എന്നാൽ ഞാൻ പറയുന്നതു പോലെ ആദ്യത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ശ്രദ്ധ ആകർഷിക്കുക എന്നതാണ് നിങ്ങൾക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി നിങ്ങൾ അത് നേരായ രീതിയിൽ എഴുതണം അതിനാൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾ അവരെ മോഹിപ്പിക്കണം അവരെ ആകർഷിക്കണം അത് ചെയ്യുന്നതിനായി പല വഴികളുണ്ട് ഉദാഹരണത്തിന് ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നടത്തുക ഞാനുദ്ദേശിച്ചത് നിങ്ങളുടെ വായനക്കാരന്റെ മനസ്സിനെ അക്ഷരാർത്ഥത്തിൽ ബാധിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ നമ്മുടെ കത്ത് ഒരു കൊട്ടേഷൻ ഉപയോഗിച്ച് ആരംഭിക്കും ഉദാഹരണത്തിന് നമ്മൾ കേട്ട സംഗീതം മധുരമുള്ളതാണ് കേൾക്കാത്തവ അതി മധുരവും എന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവരുടെ മനസ്സിനെ ആകർഷിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാവും തുടങ്ങുക കാരണം ആദ്യം നിങ്ങൾ അവരുടെ ശ്രദ്ധ ആകർഷിക്കണം ഒരിക്കൽ നിങ്ങൾ അവരുടെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉൽപ്പന്നത്തെ കുറിച്ച് സംസാരിക്കാൻ പോകും ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്താൻ പോകും ചിലപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ടതായ വില്പനയുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അപ്പോൾ ഇതാണ് ഇൻട്രോഡക്ടറി പാരഗ്രാഫ് ഇൻട്രോഡക്ടറി പാരഗ്രാഫിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കത്തിന്റെ ബോഡിയിലേക്ക് വരും അവിടെ നിങ്ങൾ ഉൽപ്പന്നത്തെ കുറിച്ച് വിവരിക്കും അത് ചെയ്യുന്നതിനായി വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ട്രയൽ ഓഫറുകൾ നൽകാൻ പോവുകയാണ് നിങ്ങൾ ഗ്യാരണ്ടി നൽകാൻ പോവുകയാണ് നിങ്ങൾ സൌജന്യ സാമ്പിളുകളും നൽകാൻ പോവുകയാണ് നിങ്ങൾ ഇതിനു പുറമേ ബ്രോഷറുകൾ ഉൾപ്പെടുത്താൻ പോവുകയാണ് കാരണം വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നത് വരെ അവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയില്ല നിങ്ങളുടെ പ്രധാന ലക്ഷ്യം വായനക്കാരനെ നിങ്ങളുടെ ഉൽപന്നം വാങ്ങുന്നയാളാക്കി മാറ്റുക എന്നതാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ പല ആളുകളും വളരെ ഉത്സാഹപൂർവ്വം പെരുപ്പിച്ചു കാണിക്കാറുണ്ട് പക്ഷേ പെരുപ്പിച്ചു കാണിക്കുക എന്നത് മുഖമുദ്രയല്ല എന്ന് ഓർക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വിപണിയിലെ മറ്റെല്ലാ ഉല്പന്നങ്ങളേക്കാളും നിങ്ങളുടെ ഉൽപ്പന്നം മികച്ചതാണെന്ന് നിങ്ങളുടെ വായനക്കാരനെ ബോധ്യപ്പെടുത്തിയാൽ ഇപ്രകാരം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നൈതിക പരിധി മറികടക്കുകയാണ് കൂടാതെ ചിലപ്പോൾ ഇത്തരം വരികൾ ഒഴിവാക്കാനുള്ളതായി നെഗറ്റീവായി കാണപ്പെടാം ഉദാഹരണത്തിന് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഇത് അസാധാരണമായ ഒരു ഓഫർ ആണ് ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉപഭോക്താവിന്റെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതേ സമയം നിങ്ങൾ നെഗറ്റീവ് ഉപയോഗിക്കുന്നു അതിനാൽ നെഗറ്റീവുകളുടെ ഉപയോഗം ഒഴിവാക്കുക കൂടാതെ നിങ്ങളുടെ കത്തുകൾ ഒരു പോസിറ്റീവ് കുറിപ്പോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നതെന്നും ഉറപ്പുവരുത്തുക ഉദാഹരണത്തിന് നിങ്ങളുടെ ഓർഡറുകൾ ഇന്നു തന്നെ അയക്കുക ഞങ്ങളുടെ പുതുതായി രൂപകല്പനചെയ്ത ടെലിവിഷൻ സ്വന്തമാക്കുന്ന പട്ടണത്തിലെ ആദ്യത്തെ ആളാവുക ഇത് യഥാർത്ഥത്തിൽ പോസിറ്റീവാണ് പക്ഷേ നിങ്ങളുടെ ഓർഡറുകൾ ഇന്ന് അയച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ പശ്ചാത്തപിക്കും എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വളരെ നെഗറ്റീവായി മാറുകയും ഒരുപക്ഷേ ആളുകൾ ഇഷ്ടപ്പെടുകയും ഇല്ല അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് ലെറ്റർ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ നെഗറ്റീവുകളുടെ ഉപയോഗം ഉപേക്ഷിച്ച് അതൊരു പോസിറ്റീവ് കുറിപ്പോട് കൂടി അവസാനിപ്പിക്കുക കത്തുകൾ ഒരു നല്ല ബന്ധം നിലനിർത്തുന്നതിനായുള്ള മാധ്യമമാണ് നാം നമ്മുടെ ഉപഭോക്ത്യ അടിത്തറയും വിപുലീകരിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ ഉപഭോക്ത്യ അടിത്തറ വിപുലീകരിക്കുന്നതിനോ ശക്തിപ്പെടുത്തുന്നതിനോ വേണ്ടി നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ല എന്നതും നമ്മൾ ഉറപ്പുവരുത്തണം നമുക്കറിയാം നമുക്ക് നിരവധി മത്സര ഏജൻസികൾ ഉണ്ടായിരിക്കാം പക്ഷേ ചില സമയങ്ങളിൽ വളരെ ആവേശത്തോടെ ഒരു കത്തെഴുതുമ്പോൾ നമ്മൾ അതിശയോക്തിപരമായ വാദങ്ങൾ മുന്നോട്ടു വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആവശ്യം നിറവേറ്റുകയില്ല അതിനാൽ നിങ്ങൾ എന്തെങ്കിലും വിറ്റു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പുതുതായി ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ കത്തുകൾ സ്വീകരിക്കാൻ പ്രാപ്തരായ ഒരു പദവിയിലായിരിക്കും ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അന്വേഷണ കത്തുകൾ എഴുതും ചില ആളുകൾ ചില പ്രത്യേക ഉൽപ്പന്നത്തെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് അറിയുകയും പിന്നീട് അവർക്ക് അതിനെക്കുറിച്ച് ഒരു തരം അന്വേഷണം നടത്താൻ സ്വയം ശ്രമിക്കാം എന്ന് തോന്നുകയും ചെയ്യും അതിനായിട്ടാണ് അവർ അന്വേഷണ കത്തുകൾ എഴുതുന്നത് ഒരാൾ ഒരു അന്വേഷണ കത്ത് എഴുതുകയാണെങ്കിൽ അയാൾ ഒരു വ്യക്തി എന്ന നിലയിലോ ഒരു സ്ഥാപനത്തിന്റെ പ്രതിനിധിയായിട്ടോ ആവും എഴുതുക അതിനാൽ അത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് മാനദണ്ഡം പ്രധാന ആശയം ആദ്യം എഴുതുക എന്നതാണ് മാനദണ്ഡം ഇനി എങ്ങനെ പ്രധാന ആശയം ആദ്യം ചേർക്കാമെന്നാൽ സൌമ്യമായ നിർദ്ദേശം ഒരു പിരീഡ് ഉപയോഗിച്ച് പങ്ച്ചുവേറ്റ് ചെയ്യുക ചോദ്യചിഹ്നം ഉപയോഗിച്ച് അല്ല വേണ്ടത് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഉൽപ്പന്നത്തെ കുറിച്ച് അറിയണം എന്ന് കരുതുക അവിടെ എന്നിട്ട് ഒരു പിരീഡ് ചേർത്ത് നേരെ ഇതിനെ കുറിച്ച് എഴുതുക ഇനി നിങ്ങൾ കത്ത് അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ദയവായി നിങ്ങളുടെ കൃതജ്ഞത അറിയിക്കുക ഞാനുദ്ദേശിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് 25 ഗെയ്സറുകൾ വാങ്ങിക്കണമെന്ന് അല്ലെങ്കിൽ 25 റൂം ഹീറ്ററുകൾ വാങ്ങിക്കണമെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ഒരുപാട് പശ്ചാത്തലം ഉണ്ടാക്കുന്നതിനു പകരം പ്രധാന ആശയം ആദ്യമേ മുന്നോട്ടു വെക്കുക ഞാൻ ഉദ്ദേശിച്ചത് പെയ്മെന്റ് നടപടികൾ പോലെയുള്ള മറ്റു വിവരങ്ങൾ പിന്നീടാണ് വരേണ്ടത് ആദ്യം നിങ്ങൾ ആ പ്രത്യേക സാധനത്തെ കുറിച്ച് അറിയണം അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഓർഡർ നൽകുക നമ്മൾ നിങ്ങൾ നൽകുന്ന വിവരങ്ങളോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ് എന്നിവ പോലെയുള്ള ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മെ ഒരു സുഗമമായ ഇടപാട് നടത്താൻ സഹായിക്കും നമ്മൾ വില്പന നടത്തുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉൽപ്പന്നത്തെ കുറിച്ച് അറിയേണ്ടി വരും ഇന്ന് ഓരോ ഉപഭോക്താവും ബോധമുള്ളവരാണ് അവർ യഥാർത്ഥത്തിൽ ഒരു താരതമ്യ പഠനം നടത്താൻ ശ്രമിക്കും അതിനായി ഒരു അന്വേഷണ കത്തെഴുതുന്നതിൽ ഒരു കുഴപ്പവുമില്ല കത്ത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളിങ്ങനെ എഴുതണം ഈ വിവരങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ ഓഫീസിലേക്ക് 45 എസികൾക്കായുള്ള ഓർഡർ തീരുമാനിക്കാൻ ഇത് സഹായകമാണ് അപ്പോൾ ആദ്യത്തെ വരിയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പ്രത്യേക ഉൽപ്പന്നത്തെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ കത്ത് അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്ന കുറിപ്പോട് കൂടിയാണ് അവസാനിപ്പിക്കുക ഒരു ബിസിനസ് കത്തിൽ അതിന്റെ സ്വഭാവം ഏതു തന്നെയായാലും അതിന്റെ അവസാനം പോസിറ്റീവായതും ഹൃദ്യമായതുമാവണം ഞങ്ങളുടെ ഓഫീസിലേക്ക് 25 ഗെയ്സറുകൾ അല്ലെങ്കിൽ 25 എസികൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കാൻ എന്നെ പ്രാപ്തമാക്കുന്ന ഈ വിവരങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് എതിർകക്ഷിക്ക് നിങ്ങൾ പ്രതീക്ഷ നൽകുകയാണ് നിങ്ങൾ ഒരു അന്വേഷണ കത്ത് അയച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി ലഭിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓർഡറുകൾ നൽകാൻ പോകുന്നു ഇനി അന്വേഷണാർത്ഥമുള്ള കത്ത് വന്നെന്നും നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് എന്നും കരുതുക എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഒന്നാമതായി നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ സബ്ജക്ട് ലൈൻ വളരെ പ്രധാനമാണ് അതിനാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സബ്ജക്റ്റ് ലൈൻ നൽകുക ഉൽപ്പന്നത്തെ കുറിച്ച് നിങ്ങൾ അറിയുകയും എന്നിട്ട് നിങ്ങൾ ഒരു ഓർഡർ നൽകാനിരിക്കുകയും ചെയ്യുമ്പോൾ പക്ഷേ അതിനു മുമ്പായി എതിർകക്ഷി നിങ്ങളോട് അത് പറയുന്നതാണ് നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ നൽകി കൊണ്ട് എതിർകക്ഷി നിങ്ങൾക്ക് എന്താണ് എഴുതുക എന്നാൽ അവർ ഒരു സബ്ജക്റ്റ് ലൈൻ എഴുതും അവിടെ ശ്രദ്ധാലുക്കളാവണം ഭാഷയുടെ ഉപയോഗത്തെക്കുറിച്ചും വ്യാകരണത്തെ കുറിച്ചുമെല്ലാം പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പക്ഷെ ഓർക്കുക നിങ്ങൾ ഒരു തലക്കെട്ട് എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണമെന്നോ ഒരു പൂർണ്ണ വാക്യം ഉപയോഗിക്കണമെന്നോ നിർബന്ധമില്ല ഇവിടെ അതിന് പ്രാധാന്യമില്ല ഇവിടെ യഥാർത്ഥത്തിൽ പ്രധാനം സബ്ജക്ട് ആണ് അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആ വാക്യം അവസാനിപ്പിക്കുമ്പോഴും അത് ഒരു പിരീഡ് ഉപയോഗിച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല അത് ഒരു ചോദ്യം ആണെങ്കിൽ പോലും ഉദാഹരണത്തിന് ഇന്ന ഉൽപ്പന്നത്തിന്റെ ഓർഡർ ഞങ്ങളുടെ സ്ഥാപനം കൈപ്പറ്റാൻ എത്ര സമയമെടുക്കുമെന്ന് എനിക്ക് അറിയാൻ കഴിയുമോ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ചോദ്യ രൂപമായി തോന്നാം പക്ഷേ ഇതൊരു സൌമ്യമായ രീതിയിൽ ആയതിനാൽ ഇവിടെ ചോദ്യചിഹ്നം ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു പിരീഡ് ഉപയോഗിച്ചും ഇത് അവസാനിപ്പിക്കാവുന്നതാണ് ഇവിടെ ഒരു സബ്ജക്ട് ലൈനിന്റെ ഉദാഹരണം കാണാം ഒരു സബ്ജക്ട് ലൈനിൽ നിങ്ങൾ ലൂമിയ സെൽ ഫോണിനെക്കുറിച്ചുള്ള ഫെബ്രുവരി 25 ആം തീയതിയിലെ കത്തിനെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആ ലൂമിയ സെൽ ഫോണിനെ കുറിച്ച് അറിയാനോ ഓർഡർ ചെയ്യാനോ നിൽക്കുകയാണെന്ന് കരുതുക അതിനാൽ അത് സബ്ജക്റ്റ് ലൈനിൽ ദയവായി സൂചിപ്പിക്കുക നിങ്ങൾ ഒരു സബ്ജക്റ്റ് ലൈൻ നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ കത്തിന്റെ വായനക്കാർ എപ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കും കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവർക്ക് മറ്റു പല ഉത്തരവാദിത്വങ്ങളും ജോലികളും ഉണ്ടാകും അപ്പോൾ അവർക്ക് ആദ്യം അറിയേണ്ടതായിട്ടുള്ളത് ആ കത്ത് എന്തിനെകുറിച്ചാണ് എന്നുള്ളതാണ് അതു കൊണ്ടാണ് സബ്ജക്ട് ലൈൻ വളരെ വ്യക്തമാവേണ്ടതായിട്ടുള്ളത് പിന്നെ വരേണ്ടത് അതിന്റെ തുടക്കവും പിന്നീട് അതിന്റെ ബോഡിയും പിന്നീട് അവസാനവും ആണ് നിങ്ങൾ അവരുടെ അഭ്യർത്ഥന അംഗീകരിക്കുകയാണെന്ന് അവരോട് പറയാൻ പോവുകയാണെങ്കിൽ സന്തോഷകരമായ വാർത്ത ആദ്യമേ എഴുതുക എല്ലാ ബിസിനസ് കത്തുകളിലും അതൊരു അന്വേഷണ കത്താണെങ്കിലും അന്വേഷണത്തിനുള്ള മറുപടിയാണെങ്കിലും നിങ്ങളുടെ പരാതികൾക്ക് മറുപടിയായി എഴുതുന്ന കത്താണെങ്കിലും തുടക്കത്തിൽ സന്തോഷകരമായ വാർത്ത അറിയിക്കുക നിരുത്സാഹപരമായ തുടക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക നിരുത്സാഹപരമായ തുടക്കങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ശരിക്കും ഞാൻ അർത്ഥമാക്കുന്നത് എന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഇന്ന കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ന തീയതിയിലുള്ള കത്തുകളാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു മങ്ങിയ തുടക്കമാണ് പകരം ലൂമിയ സെൽഫോണിനായി നിങ്ങൾ അഭ്യർത്ഥിച്ച വിവരങ്ങൾ കാണുക ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള വിവരങ്ങൾ കാണുക എന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് പിന്നീട് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുക ഇവിടെ നിങ്ങൾ അത് വിശദീകരിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ഉൽപ്പന്നങ്ങളും പ്രമോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് ആ വ്യക്തി ഒരു നിശ്ചിത ഉത്പന്നത്തെ കുറിച്ചുള്ള വിവരമാണ് ആവശ്യപ്പെടുന്നതെങ്കിലും നിങ്ങളൊരു ബിസിനസ് സ്ഥാപനത്തിലായതിനാൽ നിങ്ങൾക്ക് മറ്റു ചില ഉൽപ്പന്നങ്ങളും പ്രചരിപ്പിക്കുകയും പ്രമോട്ട് ചെയ്യുകയും വേണ്ടി വരും അതിനാൽ നിങ്ങൾക്ക് ചില അധിക വിവരങ്ങൾ അവർക്കായി നൽകാൻ കഴിയും ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ പറയാം നമ്മുടെ കമ്പനി ഐഫോൺ എന്ന പേരിൽ ഒരു പുതിയ ടച്ച് സ്ക്രീനും ഇറക്കിയിട്ടുണ്ട് ഇതുവഴി നിങ്ങൾ ഉപഭോക്താവിനെ ഉൽപ്പന്നത്തിനായി ക്ഷണിക്കുക മാത്രമല്ല മറ്റേതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ പെട്ടി അവർക്കുമുന്നിൽ തുറക്കുകയും ചെയ്യുകയാണ് ചില സമയങ്ങളിൽ കത്തെഴുതുമ്പോൾ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് മാത്രമല്ല മറ്റു ചില ഉൽപ്പന്നങ്ങളെ കുറിച്ചും വിവരങ്ങൾ തേടും അത് ഒരു പ്രത്യേക ഉൽപ്പന്നത്തെ കുറിച്ച് മാത്രമായിരിക്കില്ല മറ്റു ചില ഉൽപ്പന്നങ്ങളെ കുറിച്ചും വിവരങ്ങൾ തേടും അല്ലെങ്കിൽ ചിലപ്പോൾ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകാം ഇത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ കത്തിനോട് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അവരുടെ എല്ലാത്തരം അന്വേഷണങ്ങളോടും നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തുക അത് അനുക്രമമായ രീതിയിലും യുക്തിസഹമായ രീതിയിലുമാവണം മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫിൽ എല്ലാ വിവരങ്ങളും നൽകാൻ കഴിയില്ലെന്ന് തോന്നാം ഒരു പാരഗ്രാഫിൽ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ചില സമയങ്ങളിൽ ക്ലേശകരമാണെന്ന് തോന്നിയേക്കാം എന്നുള്ളതും നിങ്ങൾ കാണേണ്ടതാണ് അതിനാൽ അവ കത്തിന്റെ വലതുവശത്തായി ക്രമത്തിൽ കുറിച്ചിടുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുള്ളറ്റഡ് ലിസ്റ്റും വസ്തുക്കളുടെ വിവരങ്ങളും നൽകാവുന്നതാണ് നിങ്ങൾക്കറിയാമോ ജാഗരൂപരായ സ്ഥാപനങ്ങൾ പരിചയസമ്പന്നരായ സ്ഥാപനങ്ങൾ അവർ ഉത്തരങ്ങളോടൊപ്പം ചില അധിക എൻക്ളോഷറുകളും നൽകാറുണ്ടെന്ന് ഉറപ്പു വരുത്താറുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ കമ്പനി ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇറക്കാൻ പോകുന്ന മറ്റു ചില ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുക ചിലപ്പോൾ അവർ ഈ കൂപ്പൺ സംവിധാനവും ആരംഭിക്കുന്നു ഉപഭോക്താക്കളെ കീഴടക്കാൻ കഴിയുന്ന അവരെ ക്ഷണിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണിത് ചില സമയങ്ങളിൽ നിങ്ങളുടെ കത്തിൽ ഒരുതരം കൂടി കലർന്ന സന്ദേശങ്ങൾ ഉണ്ടാകും കൂടിക്കലർന്ന സന്ദേശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു ഉൽപ്പന്നത്തെ കുറിച്ചുള്ളത് മാത്രമാവില്ല എന്നാൽ സെൽഫോണിൽ നിന്നും അല്ലെങ്കിൽ എ സി യിൽ നിന്നും ഗെയ്സറിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും കൂടെ ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളെ ഒരു പ്രത്യേക ലക്ച്ചറിന് ക്ഷണിച്ചു കൊണ്ടുള്ള കത്ത് ലഭിച്ചേക്കാം അതേസമയം മറ്റു ചില കാര്യങ്ങളെ കുറിച്ചും അയാൾ സംസാരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങളെ ഒരു പ്രത്യേക പാനലിന്റെ വിദഗ്ധൻ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടാകാം പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടതെന്തെന്നാൽ നിങ്ങൾ സന്തോഷകരമായ വാർത്തകൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾ സന്തോഷ വാർത്തക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ചിലപ്പോൾ കത്തിന്റെ രചയിതാവ് ഉന്നയിച്ച എല്ലാ അഭ്യർത്ഥനകളും നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല പക്ഷേ അതേ സമയം അത് നഷ്ടപ്പെടുത്താനും നിങ്ങൾക്കാവില്ല അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അതിനെ കുറിച്ച് വളരെ പോസിറ്റീവായി സമ്മതിക്കുന്ന രീതിയിൽ സംസാരിക്കും എന്നാൽ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളും ഉണ്ടാകും അതും നിങ്ങൾ പരാമർശിക്കുക പക്ഷേ അത് തുടക്കത്തിലല്ല അത് അവസാനത്തോടടുത്താണ് സൂചിപ്പിക്കേണ്ടത് അതിനെ കുറിച്ചുള്ള സംസാരം യഥാർത്ഥത്തിൽ അടിച്ചമർത്തേണ്ടത് അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടത് വ്യത്യസ്ത രീതിയിലാണ് ഉദാഹരണത്തിന് നിങ്ങൾ അതെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അവസാന വർഷ വിദ്യാർഥികൾക്കായി ഒരു പ്രസംഗം അവതരിപ്പിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്' എന്ന് പറയുക ഇവിടെ നിങ്ങൾ ഒരു പ്രസംഗം അവതരിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ താൽപര്യം പ്രകടിപ്പിച്ചു പക്ഷേ അതേസമയം നൽകിയിട്ടുള്ള തീയതി നിങ്ങൾക്ക് സൌകര്യപ്രദവുമല്ല അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾക്ക് ഒരു പ്രസംഗം അവതരിപ്പിക്കുന്നതിൽ താല്പര്യമുണ്ട് പക്ഷേ അവർ അറിയിച്ച തീയതി നിങ്ങൾക്ക് യോജിക്കാനാവില്ല അതിനാൽ നിങ്ങൾ പ്രശ്നം വിശദീകരിക്കുക നിങ്ങളുടെ പ്രശ്നം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യത്തെ രണ്ടാഴ്ചക്കുള്ള എന്റെ ഷെഡ്യൂൾ വളരെ ടൈറ്റാണ് കാരണം ഞാൻ ആ സമയം സ്വീഡനിലോ മറ്റെവിടെയെങ്കിലുമോ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി വിദേശത്ത് ആയിരിക്കും ഇവിടെ നിങ്ങൾ വിശദീകരിക്കുകയാണ് നിങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയുന്നത് നെഗറ്റീവായ കാര്യമാണെങ്കിലും നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ അതൊരു നെഗറ്റീവ് കാര്യമായി തോന്നുകയില്ല നിങ്ങൾ ആ കത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ആ മോശം വാർത്ത അവതരിപ്പിക്കുക അവർ നിർദ്ദേശിച്ച തീയതികളിൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാനാവില്ല എന്നതാണ് ആ മോശം വാർത്ത ഇത് നിങ്ങൾക്ക് കത്തിന്റെ അവസാനത്തിന് മുമ്പായി ചേർക്കാം പക്ഷേ അതിനും മുമ്പായി അവസാനത്തോടടുത്ത് ശുഭ വാർത്തയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും എന്നാൽ ശുഭകരമായ വാർത്തയ്ക്ക് മുമ്പായി നെഗറ്റീവ് വാർത്തകൾ അവതരിപ്പിക്കുക നിങ്ങളുടെ അവസാന വർഷ വിദ്യാർഥികൾക്ക് പ്രസംഗം അവതരിപ്പിക്കാൻ ആ സമയത്ത് എനിക്ക് കഴിയില്ലെങ്കിലും ആ സമയത്ത് എന്ന് നിങ്ങൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അവർ തീരുമാനിച്ച സമയം എന്നതാണ് മാർച്ചിലെ അവസാന ആഴ്ചയിലോ ഏപ്രിലിലെ ആദ്യത്തെ ആഴ്ചയിലോ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് അവർക്ക് നിങ്ങളിൽ താല്പര്യം ഉള്ളതിനാൽ അവർക്കൊരു നിർദിഷ്ടസമയം നൽകുന്നത് എപ്പോഴും നല്ലതാണ് ഉദാഹരണത്തിന് നിങ്ങൾ പറയുന്നതുപോലെ മാർച്ച് അവസാന വാരത്തിൽ ഇനി നിങ്ങൾ കത്ത് അവസാനിപ്പിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് നിങ്ങൾ ഓർക്കുന്നത് പോലെ നിങ്ങളുടെ കത്ത് വളരെ പോസിറ്റീവായ കുറിപ്പോടുകൂടി വളരെ സൌഹാർദ്ദപരമായ കുറിപ്പോട് കൂടി അവരുടെ ക്ഷണനത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുക നിങ്ങൾ കത്ത് അവസാനിപ്പിക്കുന്നത് ഇതു പോലെയായിരിക്കും നിങ്ങളുടെ അവസാന വർഷ വിദ്യാർഥികൾക്ക് ഒരു പ്രസംഗം അവതരിപ്പിക്കുന്നതിനായി എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുന്നു ബിസിനസ് ലോകത്തിലെ സോഫ്റ്റ് സ്കില്ലുകളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നിങ്ങളുടെ വിദ്യാർഥികളുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു തീയതി മാർച്ചിലെ മൂന്നാമത്തെ ആഴ്ചയിൽ ക്രമീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല നിങ്ങൾ പ്രസംഗം അവതരിപ്പിക്കുമെന്ന് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്യുന്നു നമുക്ക് ഉറപ്പു നൽകാനാവാത്തതും ഗ്യാരണ്ടി നൽകാനാവാത്തതുമായ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇത്തരം മാർഗത്തിലൂടെ നമ്മൾ പ്രതീക്ഷയെ സജീവമാകുകയാണ് അപ്പോൾ അന്വേഷണാർത്ഥമുള്ള കത്തുകൾക്ക് പ്രതികരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഇതാണ് അടുത്തത് നമ്മൾ ഓർഡറുകൾ നൽകുമ്പോഴാണ് ഉള്ളത് നമുക്കറിയാം ബിസിനസ് സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഡറുകൾ നൽകുകയും ചിലപ്പോൾ നിങ്ങൾക്ക് അഭിനന്ദിക്കുകയും ചിലപ്പോൾ പരാതിപ്പെടുകയും ചെയ്യേണ്ടിവരും അതിനാൽ നിങ്ങൾ ഒരു ഓർഡർ നൽകുന്നതിനായി ഒരു കത്ത് എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതു പോലെ നിങ്ങൾ നേരെ വളച്ചു കെട്ടലുകളില്ലാതെ ഉരുണ്ടുകൂടിയുള്ള പദപ്രയോഗങ്ങൾ ഇല്ലാതെ കത്തിന്റെ ആദ്യത്തെ വരി തന്നെ ദയവായി എനിക്ക് 45 ഹിറ്റാച്ചി വിൻഡോ എ സി കൾ അയക്കുക എന്നായിരിക്കും ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ വളരെ വ്യക്തത പുലർത്തണം എന്നതാണ് ഇവിടെ നിങ്ങളുമായി ഒരു ബിസിനസ് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്ന പോലെയുള്ള ഔപചാരികതകളൊന്നും തന്നെയില്ല എന്ന് നിങ്ങൾക്ക് കാണാം കൂടാതെ ഇവിടെ കൂടുതൽ ഓർഡറുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ അവ കുത്തനെയായി ലിസ്റ്റ് ചെയ്യേണ്ടതാണ് ഇത് നിർബന്ധമാണ് കാരണം നിങ്ങൾ ഓർഡറുകൾ നൽകാൻ പോകുന്ന വ്യക്തി അവർക്ക് പെയ്മെന്റ് നടപടികളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും അതിനാൽ നിങ്ങളുടെ നടപടിക്രമങ്ങൾ പരാമർശിക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് ഇടപാടുകളെല്ലാം ചെക്കുകളിലൂടെയാണെന്ന് എപ്പോഴും പറയാൻ പറ്റും അതിനാൽ ചെക്ക് വഴി പണമടയ്ക്കാം അല്ലേൽ ബാങ്കിംഗ് വഴിയോ എന്ത് സൌകര്യമാണോ ഉള്ളത് അത് വഴി എന്നും പറയാം എന്നാൽ പെയ്മെന്റ് നടപടിക്രമത്തെ കുറിച്ച് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തുക നിങ്ങൾ ഉപസംഹരിക്കാൻ പോകുമ്പോൾ വളരെ സൌഹാർദ്ദപരമായ കുറിപ്പോട് കൂടി അവസാനിപ്പിക്കുക ഇനി ഇന്നത്തെ ഈ ബിസിനസ് ലോകത്ത് എല്ലായ്പ്പോഴും പണം അടച്ചു കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയില്ല ചില സമയങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പർച്ചേഴ്സുകൾ നടത്തേണ്ടത് ക്രെഡിറ്റ് ഉപയോഗിച്ചായിരിക്കും അതിനായി നിങ്ങൾ ഒരു ക്രെഡിറ്റ് ലെറ്റർ എങ്ങനെ എഴുതണം എന്നും അറിഞ്ഞിരിക്കണം ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നത് ആധുനിക ജീവിത രീതിയായി മാറിയിരിക്കുന്നു നിങ്ങൾ ഒരു ക്രെഡിറ്റ് ലെറ്റർ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് നൽകുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഏജൻസി എപ്പോഴും നിങ്ങൾക്ക് ക്രെഡിറ്റ് നൽകുമെന്നുള്ളത് നേരല്ല പക്ഷേ നിങ്ങൾ അവർക്ക് എഴുതാൻ പോകുന്നതിനാൽ ദയവായി അവർക്ക് ഒരു ആധികാരികമായ ക്രെഡിറ്റ് ലെറ്റർ എഴുതുക ആധികാരികമായ ക്രെഡിറ്റ് ലെറ്റർ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആശങ്കകളെ കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് മാത്രമല്ല സാധുതയുള്ള ക്രെഡിറ്റ് റഫറൻസുകളെ കുറിച്ചും നിങ്ങൾ വിവരം നൽകേണ്ടതുണ്ട് കാരണം ഈ ക്രെഡിറ്റ് റഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് നൽകാൻ കഴിയുകയുള്ളൂ പക്ഷേ എല്ലായ്പ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് ലെറ്റർ അംഗീകരിക്കപ്പെട്ടോളാണമെന്നില്ല നിങ്ങൾ എഴുതാൻ പോകുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാം ചില സമയങ്ങളിൽ അവരത് നിരസിച്ചേക്കാം ഇനി നിങ്ങളാണ് ഒരു റിഫ്യുസൽ ലെറ്റർ എഴുതേണ്ട പദവിയിലുള്ള ആളെന്ന് കരുതുക എങ്ങനെയാണ് നിങ്ങൾ ഒരു റിഫ്യുസൽ ലെറ്റർ എഴുതുക ഒരു റിഫ്യുസൽ ലെറ്റർ എഴുതുക എന്നാൽ നിങ്ങളുടെ കട അടക്കുകയാണെന്നല്ല അല്ലെങ്കിൽ ഒരു റിഫ്യുസൽ ലെറ്റർ എഴുതുക എന്നാൽ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണെന്നല്ല അതിനാൽ നിങ്ങൾ ഒരു ക്രെഡിറ്റ് ലെറ്റർ എഴുതുകയും നിങ്ങളുടെ ക്രെഡിറ്റ് ലെറ്ററിൽ വേണ്ടത്ര ക്രെഡിറ്റ് വിവരങ്ങൾ ഇല്ലെന്നുമാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ക്രെഡിറ്റ് നൽകുന്ന ഈ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വിവരങ്ങളുടെ സ്രോതസിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുക മാത്രമല്ല ചെയ്യേണ്ടത് മതിയായ ക്രെഡിറ്റ് റഫറൻസുകൾ നൽകുകയും വേണം ചിലപ്പോൾ ക്രെഡിറ്റ് റഫറൻസുകൾ പര്യാപ്തമല്ലാതാവാറുണ്ട് അതുകൊണ്ടാണ് ക്രെഡിറ്റ് റഫറൻസുകളെ കുറിച്ചും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഖ്യാതിയെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളത് അത് വഴി ക്രെഡിറ്റ് അനുവദിക്കപ്പെടും എന്നാൽ ഒരു ക്രെഡിറ്റ് എല്ലായ്പ്പോഴും അനുവദിക്കണമോ എന്നതാണ് ചോദ്യം നമ്മുടെ ക്രെഡിറ്റ് എപ്പോഴും അനുവദിക്കപ്പെട്ടോളണമെന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നിങ്ങൾ ഒരു റിഫ്യുസൽ ലെറ്റർ എഴുതാൻ തയ്യാറാവുക എന്നതാണ് എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു റിഫ്യുസൽ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യേണ്ടതില്ല റിഫ്യുസൽ ലെറ്ററുകൾ മറ്റുള്ള കത്തുകൾ പോലെ സൌഹാർദ്ദപരമായിരിക്കണം നിങ്ങളൊരു റിഫ്യുസൽ ലെറ്റർ തയ്യാറാക്കുമ്പോൾ നിലവിലുള്ള സൌഹൃദം കാത്തു സൂക്ഷിക്കുക അപേക്ഷകന് അവരുടെ അഭ്യർഥനക്കും ഒരു പ്രത്യേക ഉൽപ്പന്നത്തോടുള്ള അവരുടെ താൽപര്യത്തിനും നന്ദി അർപ്പിക്കുക നിങ്ങൾ അവർക്ക് ക്രെഡിറ്റ് നൽകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ അവരോട് ദയവായി വിശദീകരിക്കുക വിശദീകരിക്കുമ്പോൾ പ്രതീക്ഷയോടെയായിരിക്കുക നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളുടെ കമ്പനി വളരെ പുതിയതാണെന്നും ക്രെഡിറ്റ് അഭ്യർത്ഥനകൾ അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്നും നിങ്ങൾ പരാമർശിക്കുക എന്നിരുന്നാലും പണമായി അടക്കാൻ കഴിയുന്ന ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഇത്തരം ക്രെഡിറ്റ് കത്തുകൾ സ്വീകരിക്കുന്നതിനും ക്രെഡിറ്റിൽ സാധനങ്ങൾ നൽകുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുക അതായത് ഈ ഇടപാടിന് പണമടയ്ക്കാനായി ഉപഭോക്താവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിലനിർത്താൻ ശ്രമിക്കുക ഈ വ്യക്തിയോ ഈ സ്ഥാപനമോ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങുന്നതിൽ മാത്രമാണോ താൽപര്യപ്പെടുന്നത് എന്ന് ഉറപ്പിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനുമുള്ള ഒരു മാർഗ്ഗമാണിത് ഭാവിയിൽ ക്രെഡിറ്റ് ക്രമീകരണങ്ങൾ നടത്തുന്നതിന്റെ സാധ്യതകൾ നിങ്ങൾ നിർദ്ദേശിക്കുകയും വേണം ബിസിനസ് കത്തുകളിലൂടെ നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം ഗുഡ് വിൽ നിലനിർത്തുക എന്നതാണ് കാരണം ഈ ഗുഡ് വിൽ ഒരുതരം ബന്ധത്തിലേക്ക് നയിക്കുകയും ഈ ബിസിനസുകൾ ബന്ധത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ക്രെഡിറ്റ് അംഗീകരിക്കാൻ കഴിയുന്നതും നിരസിക്കാൻ കഴിയുന്നതുമായ സമയങ്ങൾ ഉണ്ടാവാം പക്ഷേ എപ്പോഴും നിങ്ങൾ ക്രെഡിറ്റ് കൊടുത്ത് കൊണ്ടിരിക്കുകയും പണം കൈപ്പറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല അതിന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും കാരണം നമ്മൾ സാധനങ്ങൾ ക്രെഡിറ്റിന് നൽകിയതിനാൽ എങ്ങനെ നമ്മുടെ പണം നേടാമെന്നും കുടിശ്ശിക നേടാമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ബിസിനസ് ലോകത്ത് ബന്ധങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത് നിങ്ങൾ പരസ്പരം രചിക്കുന്ന എഴുത്തുകളിലൂടെ ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി എഴുതുന്നതിലൂടെ ഈയൊരു ആശയവിനിമയത്തിലൂടെ നിങ്ങൾക്ക് ബന്ധങ്ങൾ കാണിക്കാൻ കഴിയുകയും ബിസിനസ് സുഖമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാനും കഴിയും അടുത്ത ലക്ച്ചറിൽ നമ്മൾ കളക്ഷൻ ലെറ്ററുകളെ കുറിച്ചും അഡ്ജസ്റ്റ്മെന്റ് ലെറ്ററുകളെക്കുറിച്ചും ക്ലെയിം ലെറ്ററുകളെ കുറിച്ചും മറ്റു ചില ലെറ്ററുകളെ കുറിച്ചും ചർച്ചചെയ്യും ഈ ലക്ച്ചറുകളുടെ സീരീസ് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ ഇത്തരം ലക്ച്ചറുകൾ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും അത് നിങ്ങളെ ഒരു വിജയകരവും ഫലപ്രദവുമായ ഒരു എഴുത്തുകാരനാക്കി മാറ്റും പ്രത്യേകിച്ച് ബിസിനസ് ഇടപാടുകളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവയുടെയോ രേഖകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ